നമുക്ക് കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോളിന്റെ ചർച്ച തുടരാം നമ്മൾ നേരത്തെ ഒരുപാട് പ്രോട്ടോക്കോളുകളെക്കുറിച്ചും ലോക്കുകളെക്കുറിച്ചും ടൈംസ്റ്റാമ്പ് ബേസ്ഡ് ഓർഡറിംഗ് പ്രോട്ടോക്കോളിനെക്കുറിച്ചും മൾട്ടിപ്പിൾ ഗ്രാനുലാരിറ്റി ലോക്കിങ്ങിനെക്കുറിച്ചും പഠിച്ചിരുന്നു അവയെല്ലാം ശ്രദ്ധിച്ചാലറിയാം ഡെഡ്ലോക്ക് എന്ന തുടർച്ചയായ പ്രശ്നം അവിടെ ഉണ്ടാകുന്നുണ്ട് മിക്ക പ്രോട്ടോക്കോളുകളും ഈ ഒരു കുരുക്കിൽ വന്നു പെടുന്നുണ്ട് 2 PL പ്രോട്ടോക്കോളും ഈ ഡെഡ്ലോക്ക് എന്ന കുരുക്കിൽ പെടാറുണ്ട് പക്ഷേ ടൈം സ്റ്റാമ്പ് ഓർഡറിങ് പ്രോട്ടോകോൾ ഇതിൽ വീഴില്ല അതേസമയം ലോക്കിങ് പ്രോട്ടോകോൾ എപ്പോഴും ഈ ഡെഡ്ലോക്ക് അവസ്ഥയിൽ എത്താറുണ്ട് അപ്പോൾ ആദ്യമായി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഡെഡ്ലോക്കിനെ എങ്ങനെ തടയാം എന്നതാണ് ഇതൊരു പ്രത്യേക തരത്തിലുള്ള സ്കീം ആണ് ഡെഡ്ലോക്ക് തടയുന്ന സ്കീമുകൾ ഒരു സിസ്റ്റത്തെ ഡെഡ്ലോക്ക് ആകാൻ സമ്മതിക്കുകയില്ല നമ്മൾ ഇതിന്റെ ഒരു ഉദാഹരണം നേരത്തെ കണ്ടതാണ് ടൈംസ്റ്റാമ്പ് ബേസ്ഡ് പ്രോട്ടോക്കോളുകൾ ഡെഡ്ലോക്ക് പ്രിവെൻഷൻ സ്കീം ഉപയോഗിക്കുന്നവയാണ് അപ്പോൾ ടൈംസ്റ്റാമ്പ് അടിസ്ഥാനമാക്കി ചെയ്തിട്ടുള്ള പ്രോട്ടോകോളിൽ ടൈംസ്റ്റാമ്പ് ഉപയോഗിക്കുന്നുണ്ട് ബേസിക് ടൈംസ്റ്റാബ് ഓർഡറിങ്ങ് പ്രോട്ടോകോളും വാലിടേഷൻ ബെയ്സ്ഡ് പ്രോട്ടോകോളും ഉണ്ട് ഇനി ഡെഡ്ലോക്ക് ഉണ്ടാകാതിരിക്കുവാനുള്ള സ്കീം ആണ് ഇവിടെ എന്തു സംഭവിക്കുന്നു എന്നു വച്ചാൽ ഈ ടൈംസ്റ്റാമ്പ് ബെയ്സ്ഡ് ഓർഡറിങ്ങ് പ്രോട്ടോകോളിൽ ഒരു ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ട്രാൻസാക്ഷന്റെ ഓപ്പറേഷനോ ക്രമത്തിൽ അല്ല വരുന്നത് എങ്കിൽ അവയിൽ ഒന്ന് റോൾ ബാക്ക് ചെയ്യണം നേരത്തെ നമ്മൾ റീഡ് ടൈംസ്റ്റാമ്പും റൈറ്റ് ടൈംസ്റ്റാമ്പും പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കാണാം റീഡ് ടൈംസ്റ്റാമ്പിൽ രണ്ട് വഴികൾ ഉണ്ടായിയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു ട്രാൻസാക്ഷൻ T എഴുതുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് റോൾ ബാക്ക് ചെയ്യെണ്ടി വരും ഇല്ലെങ്കിൽ ട്രാൻസാക്ഷൻ T1 അല്ലെങ്കിൽ T2 അവയിൽ ഏതാണോ തെറ്റ് ആകുന്നത് അതിനെ റോൾ ബാക്ക് ചെയ്യേണ്ടിവരും ഇനി ആരാണ് റോൾബാക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചൊദ്യമായി വരുന്നത് T ആണോ അതോ T1 അല്ലെങ്കിൽ T2 വോ അതാണ് കാര്യം ഇതിന് രണ്ട് സ്കീമുകൾ ഉണ്ട് അപ്പോൾ അതിലെ ആദ്യത്തെത് വെയ്റ്റ് ഡൈ സ്കീം ആണ് അതിനെ നമ്മൾ നോൺ പ്രീംറ്റീവ് സ്കീം എന്നും പറയുന്നു അത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം ഇവിടെ എന്തു സംഭവിക്കുന്നു എന്നു വച്ചാൽ പഴയ ട്രാൻസാക്ഷനുകൾ പുതിയ ട്രാൻസാക്ഷനുകൾക്കായി കാത്തിരിക്കും ഒരു പഴയ ട്രാൻസാക്ഷനായ T1 ഐറ്റം x ന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ലോക്ക് ആവശ്യപ്പെടുന്നു T2 പുതിയ ട്രാൻസാക്ഷനാണ് അപ്പോൾ T1 പഴയതും T2 പുതിയതുമാണ് T 1 ആണ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ലോക്ക് കൈവശം വച്ചിരിക്കുന്നത് അപ്പോൾ പഴയ ട്രാൻസാക്ഷൻ പുതിയ ട്രാൻസാക്ഷൻ തീരുന്നതു വരെ കാത്തിരിക്കും ഇനി പഴയതാണ് പുതിയതിനു ശേഷം വരുന്നത് എങ്കിൽ T2 ആയിരിക്കും ലോക്കിനെ കൈവശം വച്ചിരിക്കുന്നത് പഴയതിന് അത് ആവശ്യവും ഉണ്ട് അങ്ങനെ വരുമ്പോൾ അത് കാത്തിരിക്കും അപ്പോൾ പുതിയവ കാത്തിരിക്കാറില്ല പുതിയതിന് ഇപ്പോൾ ഒരു ലോക്കു വേണമെന്നുണ്ടെങ്കിൽ അവ റോൾ ബാക്ക് ചെയ്യും അതിന്റെ അർത്ഥം പുതിയവ പഴയതിനു വേണ്ടി കാത്തിരിക്കാറില്ല അതായത് പുതിയവ ഇനി പഴയവയാണ് ലോക്കുകളെ കൈവശപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കണ്ടാൽ നശിച്ചു പോകും ഇതാണ് അവിടെ സംഭവിക്കുക അപ്പോൾ പുതിയവ ലോക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കാറില്ല നശിച്ചു പോകുകയേ ഉള്ളു കാരണം പഴയവയാണ് ഇപ്പോൾ ലോക്കുകളെ കൈകാര്യം ചെയ്തിരിക്കുന്നത് അതിനാൽ അത് നശിച്ചു പോകുന്നു അത് റോൾ ബാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അബോർട്ട് ആകുകയോ ചെയ്യുന്നു അത് അബോർട്ടിന് തുല്യമാണ് ഇതു കൊണ്ടാണ് ഇതിനെ വെയിറ്റ് ഡൈ സ്കീം എന്നു പറയുന്നത് ഇതാണ് കാര്യം അപ്പോൾ ഇവിടെ പുതിയവ ഒരുപാടു പ്രാവശ്യം നശിച്ചു പോകും കാരണം ഒരു ട്രാൻസാക്ഷൻ റോൾബാക്ക് ചെയ്യുകയോ നശിക്കുകയോ അല്ലെങ്കിൽ അബോർട്ട് ആക്കുകയൊ ചെയ്യുമ്പോൾ അതിന്റെ ടെർമിനോളജിയും ഒരു പുതിയ ടൈം സ്റ്റാബിന്റെ കൂടെ വീണ്ടും തുടങ്ങുകയാണ് അപ്പോൾ ഒരു പുതിയ ട്രാൻസാക്ഷൻ വീണ്ടും തുടങ്ങുമ്പോൾ അതു തുടങ്ങുന്നത് ഒരു പുതിയ ടൈം സ്റ്റാമ്പ് വച്ചിട്ടായിരിക്കും അപ്പോൾ അത് നശിക്കുന്നതിനുള്ള സാധ്യതയും കൂടുതൽ ആണ് അങ്ങനെ വരുമ്പോൾ ഇതിന് വീണ്ടും വീണ്ടും നശിക്കാം അതുകൊണ്ടാണ് ഇതിനെ നോൺ പ്രീഎംറ്റീവ് എന്ന് വിളിക്കുന്നത് കാരണം ആരും ഈ ട്രാൻസാക്ഷനെ ഇവിടെ നിന്നും മാറ്റുന്നില്ല അപ്പോൾ പഴയ ട്രാൻസാക്ഷൻ പുതിയ ട്രാൻസാക്ഷൻ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കുന്ന അതേസമയം പുതിയവ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആരും മറ്റു ട്രാന്സാക്ഷന്കളെ മുൻപേ തടയുകയില്ല അതുകൊണ്ടാണ് ഇതിനെ വെയിറ്റ് ഡൈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അടുത്തത് വൂണ്ട് വെയിറ്റ് സ്കീം ആണ് ഇതും പ്രീഎംറ്റിവ് ആണ് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പിന്നീട് നോക്കാം ഇവിടെ പഴയ ട്രാൻസാക്ഷനുകൾ പുതിയ ട്രാൻസാക്ഷനുകളെ നശിപ്പിക്കുന്നു ഇത് വളരെ ആകർഷകമാണ് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ ട്രാൻസാക്ഷൻ T1 ഉണ്ട് എന്ന് കരുതുക അത് ഡേറ്റ ഐറ്റം ആയ x നെ കൈവശപ്പെടുത്തിയിരുന്നു ഇനി ഒരു പഴയ ട്രാൻസാക്ഷൻ ആയ T2 ന് ഈ ഡേറ്റ ഐറ്റത്തെ വേണം എന്ന് കരുതുക ഈ ഒരു സമയത്ത് പഴയ ട്രാൻസാക്ഷൻ വരികയും പുതിയവ ഈ ട്രാന്സാക്ഷനെ കൈവശപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ പുതിയ ട്രാൻസാക്ഷനിൽ നിന്നും ഈ ലോക്കിനെ റിലീസ് ചെയ്യും അങ്ങനെ പുതിയത് നശിച്ചുപോകും അപ്പോൾ പുതിയവ ഇവിടെ നശിക്കുകയും പഴയവക്ക് ഈ ലോക്ക് കിട്ടി അവ മുന്നോട്ടു പോകുകയും ചെയ്യുന്നു അപ്പോൾ പുതിയവ ഇവിടെ മരിക്കുകയാണ് അതുകൊണ്ടാണ് പഴയ ട്രാൻസാക്ഷനുകൾ പുതിയവയെ കൊല്ലുന്നു എന്ന് പറയുന്നത് എന്നിട്ട് പുതിയ ട്രാൻസാക്ഷനുകൾക്ക് എന്തു സംഭവിക്കും അവ കാത്തിരിക്കും അപ്പോൾ ഒരു പഴയ ട്രാൻസാക്ഷൻ ലോക്കിനെ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് എന്നിട്ട് പുതിയവ അങ്ങോട്ട് വരുകയാണ് എന്നിട്ട് അത് കാത്തിരിക്കും അപ്പോൾ ടെർമിനോളജിയിൽ പഴയ ട്രാൻസാക്ഷനുകൾ പുതിയവയെ മുറിവേൽപ്പിക്കുക എന്നത് വച്ചാണ് വരുന്നത് അത് അപ്പോൾ പുതിയവയെ കുത്തുന്നു എന്നിട്ട് കൊല്ലുന്നു അങ്ങനെ പുതിയവ നശിച്ചു പോകുകയാണ് അതുകൊണ്ടാണ് ഇതിനെ വുൺണ്ട് വെയിറ്റ് പ്രോട്ടോകോൾ എന്നു പറയുന്നത് ഇനി ഇത് പ്രീഎംറ്റീവ് ആണ് എന്തു കൊണ്ടാണ് ഇത് പ്രീഎംറ്റീവ് ആയത് കാരണം ഒരു പഴയ ട്രാൻസാക്ഷൻ വന്ന് ഇത് കാണുകയാണെങ്കിൽ അതിന് പുതിയ ട്രാൻസാക്ഷൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന ലോക്കിനെ വേണം എന്നാകും അത് അപ്പോൾ പുതിയതിനെ അവിടെ നിന്നും മാറ്റും അത് ബലമായി പുതിയ ട്രാൻസാക്ഷനെ അബോർട്ടു ചെയ്യും ബലമായി പുതിയതിനെ കൊണ്ട് ഇതിനെ അൺലോക്ക് ചെയ്യിപ്പിക്കും അങ്ങനെ ഇത് പുതിയവയുടെ കൂട്ടത്തിൽ നിന്നുള്ള നെയിംട് ഡേറ്റ ഐറ്റത്തെ അവിടെ നിന്നും മാറ്റും എന്നിട്ട് ആ ഡേറ്റാ ഐറ്റത്തെ കൈവശപ്പെടുത്തും പഴയതിനെ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് നടക്കും ഇതിനാലാണ് ഇതിനെ പ്രീഎംറ്റീവ് ഡേറ്റ ഐറ്റം എന്നു പറയുന്നത് ട്രാൻസാക്ഷൻ ഇതേ ടൈം സ്റ്റാമ്പിൽ തന്നെ തുടങ്ങും ആയിരിക്കും അപ്പോൾ ട്രാൻസാക്ഷനുകൾ ഇവിടെ പുതിയ ടൈം സ്റ്റാമ്പ് വച്ചോ അല്ലെങ്കിൽ അതേ ടൈംസ്റ്റാമ്പ് വച്ചോ വീണ്ടും തുടങ്ങുകയാണ് ഇത് മറ്റൊരു കാര്യമാണ് ഇനി ഇവിടെ ഈ സ്കീമിന് മുകളിൽ സ്റ്റാർവേഷൻ ഇല്ല അത് എന്തുകൊണ്ടാണ് ഇല്ലാത്തത് സ്റ്റാർവേഷൻ നടക്കുമ്പോൾ എന്തു സംഭവിക്കും ഒരു ട്രാൻസാക്ഷന് ഒരു ഡേറ്റാ ഐറ്റം വേണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതിന് അത് കിട്ടുകയില്ല എന്നു വരികയാണെങ്കിൽ അടുത്ത പ്രാവശ്യം അതിനു ഇതുപോലെ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ അത് കൊണ്ടുപോകും അങ്ങനെ അങ്ങനെ പോകും ഇനി ഈ ട്രാൻസാക്ഷൻ ഇതേ ഡേറ്റാ ഐറ്റം വച്ചു തന്നെ വീണ്ടും തുടങ്ങുകയാണെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് ഈ ട്രാൻസാക്ഷൻ മാത്രമായിരിക്കും പഴയതായി ഇവിടെ ഉണ്ടാവുക കാരണം ബാക്കിയുള്ള പഴയ ട്രാൻസാക്ഷനുകൾ എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടാകും ഇതാണ് അപ്പോൾ ഇവിടെ സ്റ്റാർവ് ആകുന്നത് അതിനു ശേഷം അതിന് അത് കിട്ടും എന്നിട്ട് പുതിയവയെ അത് മാറ്റിക്കും എന്നിട്ട് ഇവയെ എടുക്കും അതിനാൽ ഇവിടെ സ്റ്റാർവേഷൻ വരുന്നില്ല അതേ സമയം വെയിറ്റ് ഡൈയിൽ എന്തു സംഭവിക്കും ഒരു പ്രത്യേക സമയത്ത് ഈ ഒരു ട്രാൻസാക്ഷൻ പഴയത് ആകും അപ്പോൾ ഇതിന് ഇത് വെറുതെ കിട്ടും കാരണം അത് പുതിയവ പൂർത്തിയാകുന്നതു വരെ കാത്തിരിക്കും എന്നിട്ട് ഇത് ആവശ്യമുള്ള മറ്റ് ട്രാൻസാക്ഷന് കിട്ടുകയില്ല കാരണം അത് പുതിയതാണ് ഇതാണ് പഴയത് അവസാനം ഇതിന് ഇത് കിട്ടും അതിനാൽ ഇവിടെ സ്റ്റാർവേഷൻ ഉണ്ടാകുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ ഡെഡ്ലോക്ക് ഉണ്ടാകുന്നില്ല എന്ന് ഇത് ഡെഡ്ലോക്ക് ഫ്രീയും സ്റ്റാർവേഷൻ ഫ്രീയും ആണ് ഇനി ഇവ രണ്ടിൽ നിന്നും ഏതാണ് മികച്ചത് വെയ്റ്റ് ഡൈ ട്രാൻസാക്ഷനിൽ പുതിയവ നശിച്ചു കൊണ്ടേയിരിക്കും കാരണം ഓരോ പ്രാവശ്യവും ഇത് വീണ്ടും തുടങ്ങുമ്പോൾ ചില പഴയ ട്രാൻസാക്ഷനുകൾ ഉണ്ടാകാറുണ്ട് പുതിയവ ഇവിടെ വരും പക്ഷേ പഴയവ നേരത്തെതന്നെ ലോക്കുകളെ കൈവശപ്പെടുത്തിയിട്ടുണ്ട് അതു കാരണം പുതിയ ട്രാൻസാക്ഷൻ നശിക്കുകയും വീണ്ടും തുടങ്ങി ഈ സ്ഥലത്ത് വന്ന് വീണ്ടും നശിക്കുകയും ചെയ്യുന്നു ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ വുണ്ട് വെയ്റ്റ് കൂടുതൽ റോൾ ബാക്കുകൾ കാണിക്കും വുണ്ട് വെയിറ്റ് സ്കീമിൽ വെയ്റ്റ് ഡൈ സ്കീമിനെകാളും കൂടുതൽ റോൾ ബാക്കുകളുണ്ട് അപ്പോൾ ഇവ രണ്ടിൽ നിന്നും വെയിറ്റ് ഡൈ ആണ് കൂടുതൽ ഉചിതമായി എടുക്കുന്നത് ഇനി വെയിറ്റ് ഡൈയിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ പുതിയ ട്രാൻസാക്ഷനുകൾ ഒരുപാട് പ്രാവശ്യം നശിച്ചുപോകും പുതിയ ട്രാൻസാക്ഷനുകൾക്ക് ഒരു ലോക്ക് വേണമെന്ന് വരും അവിടെ പഴയ ട്രാൻസാക്ഷൻ ഈ ലോക്കിനെ കൈവശം വച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇത് നശിച്ചുപോകും ഇത് വീണ്ടും തുടങ്ങി ഇതേ സ്ഥലത്ത് തന്നെ വീണ്ടും വരും ആ സമയം പഴയ ട്രാൻസാക്ഷൻ ഇതിനെ കൈവശപ്പെടുത്തി എന്ന് കാണുകയാണെങ്കിൽ ഈ പുതിയ ട്രാൻസാക്ഷൻ വീണ്ടും നശിക്കും പക്ഷേ പഴയ ട്രാൻസാക്ഷൻ ഇത് പൂർത്തിയാക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് വെയിറ്റ് ഡൈആണ് ഇനി വുണ്ട് വെയ്റ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും പഴയ ട്രാൻസാക്ഷനുകൾ പുതിയവയെ കൊല്ലും അപ്പോൾ ഇവിടെ വളരെ പഴയ ട്രാൻസാക്ഷനുകൾ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ അത് പുതിയവയെ കൊല്ലും അപ്പോൾ ഇവിടെ വെയിറ്റ് ഡൈയിൽ പുതിയ ട്രാൻസാക്ഷനുകൾ ഒരുപാട് പ്രാവശ്യം നശിക്കുന്നുണ്ട് അതുപോലെ പഴയ ട്രാൻസാക്ഷനുകൾ ഒരുപാട് വുണ്ട് വെയിറ്റിൽ ട്രാൻസാക്ഷനുകളെ കൊല്ലാൻ സാധ്യതയുണ്ട് അപ്പോൾ വുണ്ട് വെയിറ്റിൽ ഒരുപാട് റോൾ ബാക്കുകളുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് വെയിറ്റ് ഡൈ സ്കീം ആയിരിക്കും ഇത് ഡെഡ് ലോക്ക് തടയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇനി ഡെഡ് ലോക്ക് തിരിച്ചെടുക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച നടത്താം ഡെഡ് ലോക്ക് തടയാനുള്ള സ്കീമുകൾ ഒരിക്കലും ഡെഡ് ലോക്കിലോട്ട് പോകില്ല അവിടെ അതിനെ തിരിച്ചെടുക്കുക എന്നുള്ള ഒരു ചോദ്യമേ വരുന്നില്ല പക്ഷേ ഈ ലോക്കിങ് സ്കീമുകൾ ഡെഡ് ലോക്ക് തടയാനുള്ള സ്കീമുകൾ അല്ല അതിനാൽ അവ ഡെഡ് ലോക്കിലോട്ട് പോകാം ഇനി ചോദ്യം എന്തെന്നാൽ ഒരിക്കൽ ഒരു സിസ്റ്റം ഡെഡ് ലോക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനെ കണ്ടെത്തുകയും തിരിച്ചെടുക്കുകയും വേണം സിസ്റ്റം കാത്തിരിക്കാൻ പാടില്ല അത് ഈ ഡെഡ് ലോക്കിനെ പൊട്ടിക്കണം അങ്ങനെ വേണം ഇത് ചെയ്യാൻ അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഡെഡ് ലോക്കിനെ കണ്ടുപിടിക്കുക എന്നതാണ് ഇതിനെ നമ്മൾ ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ എന്നു പറയും അതിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അത് നമ്മൾ നേരത്തെ ചെയ്ത കോൺസെപ്റ്റ് പോലെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് എന്നത് വെയിറ്റ് ഫോർ ഗ്രാഫ് എന്നതാണ് ഇതാണ് വെയിറ്റ് ഫോർ ഗ്രാഫ് നമ്മൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസീബിലിറ്റിയിൽ ഗ്രാഫ് കണ്ടു ഇത് അതുപോലെയുള്ള ഒന്നാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ Ti Tj യ്ക്കു വേണ്ടി കാത്തിരിക്കും അതിൻറെ അർത്ഥം എന്തെന്നാൽ Tj ലോക്ക് കൈവശപ്പെടുത്തിയിരുന്നു Ti ക്ക് അത് വേണം അതിനാൽ Ti കാത്തിരിക്കും അപ്പോൾ ഗ്രാഫ് ഈ ഗ്രാഫിലെ നോഡുകൾ എന്നത് ട്രാൻസാക്ഷനുകൾ ആണ് അത് പോലെ എഡ്ജകൾ എല്ലാം ഇതിലെ റിലേഷൻഷിപ്പുകൾക്ക് വേണ്ടിയുള്ള വെയിറ്റ് ആണ് ഇവിടെ Ti Tj ക്ക് വേണ്ടി കാത്തിരിക്കുന്നു അപ്പോൾ അവിടെ ഒരു നോഡ് വരും അപ്പോൾ Ti ക്ക് അവിടെ ദിശ കാണിച്ചിട്ട് ഉള്ള ഒരു എഡ്ജ് നോഡ് ആയ Tj യിലേക്ക് വരും ഇവിടെ അപ്പോൾ ഡെഡ്ലോക്കിന് എന്തു സംഭവിക്കുന്നു എന്നു വച്ചാൽ ഈ T i Tjക്ക് വേണ്ടി കാത്തിരിക്കും പിന്നെ Tj Tk ക്ക് വേണ്ടി കാത്തിരിക്കും പിന്നെ Tk വേറെ ഏതിനെങ്കിലും വേണ്ടി കാത്തിരിക്കും അവസാനം വേറെ ഏതെങ്കിലും ഒന്ന് Ti ക്ക് വേണ്ടി കാത്തിരിക്കും ഇതുകൊണ്ടാണ് ഇത് ഡെഡ്ലോക്കായി വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഗ്രാഫിൽ എന്തു സംഭവിക്കുന്നു എന്ന് കാണാം ഇവിടെ Tj Tkക്കുവേണ്ടി കാത്തിരിക്കുന്നു Tk മറ്റെന്തിനോ വേണ്ടി കാത്തിരിക്കുന്നു പിന്നെ വേറെ എന്തിനേയെങ്കിലും വേറെ എന്തെങ്കിലും വന്ന് Ti ക്ക് വേണ്ടി കാത്തിരിക്കും ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുവച്ചാൽ ഇവിടെ ഡെഡ്ലോക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു സൈക്കിൾ ഈ ഗ്രാഫിൽ ഉണ്ടാകുന്നുണ്ട് ഒരു ഗ്രാഫിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അതിൽ ഡെഡ്ലോക്ക് ഉണ്ടോ എന്ന് തിരിച്ചറിയുവാൻ സാധിക്കു ഒരാൾക്ക് എങ്ങനെയാണ് ഗ്രാഫിൽ സൈക്കിൾ ഉണ്ട് എന്ന് അറിയുവാൻ സാധിക്കുക അത് നമ്മൾ നേരത്തെ കോൺഫ്ലിക്റ്റ് സീരിയസബിലിറ്റി ഗ്രാഫിൽ ചെയ്തതുപോലെയാണ് ഒരാൾക്ക് അപ്പോൾ ഡെപ്ത് ഫസ്റ്റ് അൽഗോരിതം ഉപയോഗിച്ച് ഗ്രാഫിൽ സൈക്കിൾ ഉണ്ടോ എന്നും ഡെഡ്ലോക്ക് ഉണ്ടോ എന്നും കണ്ടു പിടിക്കാൻ സാധിക്കും കാരണം ഈ സൈക്കിളിൽ ട്രാൻസാക്ഷനുകൾ എല്ലാം ഒരു വൃത്താകാരമായി ആണ് കാത്തിരിക്കുന്നത് സൈക്കിൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഡ്ലോക്ക് ഉണ്ടാകില്ല ഇതാണ് ഇവിടുത്തെ കാര്യം